നമസ്കാരം സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ൻറെ ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പ്രോഗ്രാം ഇൻറർനെറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തു എന്ന് കരുതുക ആ പ്രോഗ്രാം വിശ്വസനീയമാണോ അത് റൺ ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ അല്ലെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ വിവരങ്ങൾ ചോർത്തുമോ എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കില്ല ഒരുപക്ഷേ ആ പ്രോഗ്രാം നമ്മുടെ കംപ്യൂട്ടറിനെ പ്രവർത്തന രഹിതമാക്കുകയോ പ്രധാനപ്പെട്ട ഫയലുകളെ നശിപ്പിക്കുകയോ ചെയ്തേക്കാം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ നമ്മൾ അൺ ട്രസ്റ്റഡ് പ്രോഗ്രാമുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ ക്ലാസ്സിലും തുടർന്ന് വരുന്ന മറ്റു ക്ലാസ്സുകളിലും അൺ ട്രസ്റ്റഡ് പ്രോഗ്രാമുകൾ എങ്ങനെയാണു റൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ക്ലാസ്സിൽ ഒരു അപ്ലിക്കേഷൻ പൂർണമായും അൺ ട്രസ്റ്റഡ് ആണെങ്കിൽ അതെങ്ങനെ റൺ ചെയ്യാം എന്നു നോക്കാം വരും ക്ലാസ്സുകളിൽ അൺ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലൈബ്രറി മൊഡ്യൂൾ എന്നിവ എങ്ങനെയാണു റൺ ചെയ്യുന്നതെന്നും നോക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ റൺ ചെയ്യുന്നു അതോടൊപ്പം ഒരു തേർഡ് പാർട്ടി മൊഡ്യൂൾ അല്ലെങ്കിൽ ലൈബ്രറി ഉപയോഗിക്കുന്നു ഈ ലൈബ്രറി അല്ലെങ്കിൽ മൊഡ്യൂൾ നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തതാണെങ്കിൽ നമുക്ക് അതിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരുപക്ഷേ അതു ഒരു മലീഷ്യസ് കോഡ് ആയിരിക്കാം ഈ സമയത്തു ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഇതുപോലുള്ള ലൈബ്രറി അല്ലെങ്കിൽ മൊഡ്യൂൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം തീർച്ചയായും ഇതിനു ചില പരിഹാരമാർഗങ്ങൾ ഉണ്ട് ആദ്യത്തെ രീതി എയർ ഗ്യാപ്പ്ഡ് സിസ്റ്റംസ് ഉപയോഗിക്കുക എന്നതാണ് അതായത്പ്രസ്തുത കംപ്യൂട്ടറിനെ അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ലാൻ സംവീധാനത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നതാണ് അതിനു ശേഷം ആവശ്യമായ ഓപ്പറേറ്റിങ് സിസ്റ്റവും പ്രത്യേക Dedicated സിസ്റ്റത്തിൽ നിന്നും മറ്റു സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റോൾചെയ്യാവുന്നതാണ് അതുവഴി അൺ ട്രസ്റ്റഡ് അപ്ലിക്കേഷനുകൾ റൺ ചെയ്യാവുന്നതാണ് സാധാരണയായി ക്ളൌഡ് കമ്പ്യൂട്ടർ എൻവിറോണ്മെന്റ് ൽ കണ്ടുവരുന്ന വെർച്വൽ മെഷിൻ ആണ് മറ്റൊരു മാർഗം ഈ രീതിയിൽ ഒരു വെർച്വൽ സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ഈ വെർച്വൽ മെഷിൻ ൽ ഒരു ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് അൺ ട്രസ്റ്റഡ് പ്രോഗ്രാമുകൾ ഈ വെർച്വൽ മെഷിൻ വഴി റൺ ചെയ്യണം മൂന്നാമത്തെ മാർഗം ഡോക്കർ പോലുള്ള കണ്ടെയ്നർ വെച്ചിട്ടുള്ളതാണ് എന്നാലിത് എയർ ഗ്യാപ്പ്ഡ് സിസ്റ്റം പോലെയോ വെർച്വൽ മെഷിൻ പോലെയോ ഉള്ള അത്രയും ശക്തമായ മാർഗം അല്ല എന്നാലും ഒരു പരിധി വരെ അൺ ട്രസ്റ്റഡ് അപ്ലിക്കേഷനുകൾ റൺ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് നമ്മൾ കണ്ട ഈ മൂന്നു രീതികളും അൺ ട്രസ്റ്റഡ് പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്നാൽ ഓരോ മാർഗവും ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായി എന്തെങ്കിലും ഒരു സജ്ജീകരണം കൂടി ആവശ്യമായി വരുന്നുണ്ട് ഉദാഹരണത്തിന് എയർ ഗ്യാപ്പ്ഡ് സിസ്റ്റംസ് പ്രയോഗിക്കുമ്പോൾ പ്രത്യേകമായി ഒരു സിസ്റ്റം വേണം വെർച്വൽ മെഷിൻ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ പൂർണമായും ഒരു വെർച്വൽ സിസ്റ്റം ക്രീയേറ്റ് ചെയ്യണം അതുപോലെ കണ്ടെയ്നർ പോലുള്ള മാർഗം പ്രയോഗിക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഡോക്കർ പോലെയുള്ള കണ്ടെയ്നർ ആവശ്യമാണ് Remote Procedure Calls ഉപയോഗിക്കുന്ന ഒരു പരിഹാരം ഈ പ്രഭാഷണത്തിൽ ചർച്ചചെയ്യുന്നു നിങ്ങൾ ഇനി പറയുന്ന ഒരു സാഹചര്യം പരിഗണിക്കുക നമുക്ക് ഒരു വലിയ അപ്ലിക്കേഷൻ റൺ ചെയ്യണം ഈ അപ്പ്ളികേഷനിൽ കുറെ modulels ഉണ്ട് അതുപോലെ എല്ലാ മോഡ്യൂളും ഒരു പ്രോസസിൽ റൺ ചെയ്യുന്നതുമാണ് ഈ അപ്ലിക്കേഷനിൽ ധാരാളം ദുർബലത ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഒരൊറ്റ vulnerablity ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽപ്പോലും ആക്രമണകാരിക്ക് ആ നിർദ്ദിഷ്ട അപ്ലിക്കേഷനിലേക്ക് ആക്സസ് നേടാനാകും തുടർന്ന് മുഴുവൻ ആപ്ലിക്കേഷൻ സ്പെയ്സിലേക്കും ആക്സസ്സ് ലഭിക്കും ഇത്തരത്തിൽ ഉള്ള പഴുതുകൾ ഉണ്ടെകിലും ഒരു attackerന്ന് പരിമിതമായ വിവരങ്ങൾ മാത്രമേ access ചെയ്യാൻ കഴിയു അത്തരമൊരു program വികസിപ്പിക്കുക എന്നതാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം ഒരു വലിയ ആപ്ലിക്കേഷനിൽ ഒരു Attacker ഒരു vunerablity ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എങ്ങനെ പരിമിതപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം vunerability മുഴുവൻ ആപ്ലിക്കേഷനെയും ബാധിക്കരുത് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഈ വലിയ applicationനെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക എന്നതാണ് തന്നിരിക്കുന്ന ചിത്രം നോക്കുക ഈ ഓരോ ഭാഗങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്താൻ ആർപിസി ആണു ഉപയോഗിക്കുന്നത് ഈ സമയത്തു ഓരോ ഭാഗങ്ങളും തികച്ചും സ്വതന്ത്രമായാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു Attacker നു ആ ആപ്ലിക്കേഷനെ മുഴുവനായി ആക്രമിക്കാൻ ആവില്ല ഒരു ഭാഗത്തെ മാത്രമേ ആക്രമിക്കാൻ സാധിക്കൂ ഒരു കേസ് സ്റ്റഡി പോലെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന technical പേപ്പറിൽ തന്നിട്ടുള്ള ഡിസൈൻ നോക്കാം ഇത് OKWS വെബ് സെർവർ എന്നറിയപ്പെടുന്നു ഒരു വെബ് സെർവർ എങ്ങനെയായിരിക്കണം എന്നും ഉയർന്ന സെക്യൂരിറ്റിയോട് കൂടി എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത് എന്നും ഈ പേപ്പർ വിശദീകരിക്കുന്നുണ്ട് ഈ പേപ്പർ 2004 ൽ ആണു പ്രസിദ്ധീകരിച്ചത് ഇതു തുടങ്ങുന്നത് അപ്പാച്ചെ വെബ് സെർവർ റീവർക് ചെയ്ത് കൊണ്ടാണ് അപ്പാച്ചെ വെബ് സെർവറിൽ 2004 ൽ റിപ്പോർട്ടു ചെയ്ത എല്ലാ കേടുപാടുകൾക്കും പരിഹാരം ഈ പേപ്പർ നിർദ്ദേശിക്കുന്നു കൂടുതൽ മികച്ചതായി വെബ് സെർവർ ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച് ഈ പേപ്പർ പറയുന്നുണ്ട് ഈ പേപ്പറിലെ വെബ്സർവറിനെ OSKDB webserver എന്ന് വിളിക്കുന്നു ഒരു കേസ് സ്റ്റഡി ആയി ഇതു ഉപയോഗിക്കാം ഈ വെബ് സെർവറിനു കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭാഗങ്ങൾ എല്ലാം ഒരേ അഡ്രസ്സ് സ്പേസിൽ ആണ് പ്രവർത്തിച്ചിരുന്നത് ചിത്രം നോക്കുക എപ്പോഴെങ്കിലും ഒരു കക്ഷി വെബ് സെർവർ നോട് കണക്ട് ചെയ്താൽ അതിലെ കണക്ഷൻ മൊഡ്യൂൾ പ്രവർത്തിക്കുകയും ഈ വിവരം മറ്റു ഭാഗങ്ങളിൽ അറിയിക്കുകയും ചെയ്യും ഉദാഹരത്തിനു ഒരു client ഒരു encrypted പേജ് ആണ് റിക്വസ്റ്റ് ചെയ്തത് എങ്കിൽ കണക്ഷൻ മൊഡ്യൂൾ ഈ വിവരം SSL മോഡ്യൂളിന് കൊടുക്കും ഒരു PHP പേജ് ആണ് റിക്വസ്റ്റ് ചെയ്തത് എങ്കിൽ അത് PHP മോഡ്യൂളിന് കൊടുക്കും അതുപോലെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അക്സസ്സ് ചെയ്യാവുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ട് ഡാറ്റാബേസ് ആക്സസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആക്സസ്സുകൾക്കും പ്രതികരണം കണക്ഷൻ മൊഡ്യൂളിലൂടെ ക്ലയന്റിലേക്ക് തിരികെ പോകുന്നു ഈ സമയത്തു നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കണക്ഷൻ മൊഡ്യൂൾ അതുപോലെ മറ്റെല്ലാ ഭാഗങ്ങളും ഒറ്റ അഡ്രസ്സ് സ്പേസിൽ ആണ് പ്രവർത്തിക്കുന്നത് അതായത് എല്ലാം ഒറ്റ പ്രോസസ്സ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഈ സമയത്തു ഒന്നിൽ കൂടുതൽ കക്ഷികൾ വെബ് സെർവർ ഇൽ ആശയവിനിമയം നടത്തിയാൽ അവിടെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടാവും ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഡാറ്റാബേസ് ആണ് ഒരു വെബ് സെർവറിൽ ഒന്നിൽ കൂടുതൽ വെബ് പേജുകൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഉദാഹരത്തിനു ഒരു വെബ് സെർവറിൽ സേർച്ച് എൻജിനും ഡെയിലി ന്യൂസ് പേപ്പർ പേജും ഉണ്ടായേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഈ രണ്ട് പേജുകളും നിയന്ത്രിക്കുന്നത് ഒരൊറ്റ ഡാറ്റാബേസ് സെർവർ ആണ് അത്തരം സാഹചര്യങ്ങളിൽ മുഴുവൻ സിസ്റ്റത്തിന്റെയും സുരക്ഷ ഡാറ്റാബേസ് സെർവറിലാണ് ഉള്ളത് സെർച്ച് എഞ്ചിൻ പേജും newspaper വെബ്പേജും തമ്മിലുള്ള isolation നിയന്ത്രിക്കുന്നത് ഡാറ്റാ ബേസ് സെർവറിന്റെ coarse grained access policy വഴിയാണ് ഒരു വെബ് സെർവർ മുഴുവൻ ഒറ്റ അഡ്രസ്സ് സ്പേസിൽ ആയതുകൊണ്ട് ഏതെങ്കിലും module നു ഉണ്ടാവുന്ന സുരക്ഷാവീഴ്ച മുഴുവൻ വെബ് സെർവെറിന്നെയും ബാധിക്കും ചിത്രം നോക്കുക P1 P2 എന്നിവ രണ്ടു പ്രോസസ്സ് ആണ് അത് രണ്ടും യഥാക്രമം user 1 user 2 ആണ് നിർമിച്ചിരിക്കുന്നത് ഇതിൽ user 1 വെബ് സെർവറിൽ കണക്ട് ചെയ്തിരിക്കുന്നു അതുപോലെ user 2 സെർച്ച് എൻജിൻ പേജ് ആണ് ഉപയോഗിക്കുന്നത് user 1 ചോദിക്കുന്ന കാര്യത്തിന് സെർച്ച് എൻജിൻ മറുപടി നൽകുകയും ചെയ്യുന്നു user 2 വെബ് പേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അത് ന്യൂസ് പേപ്പർ പേജ് ആണ് ഉപയോഗിക്കുന്നത് തന്നിരിക്കുന്ന ഗ്രാഫിനെ ഡിപെൻഡൻസി ഗ്രാഫ് എന്നാണ് വിളിക്കുന്നത് വിവിധ എന്റിറ്റികൾ എങ്ങനെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഡിപൻഡൻസി ഗ്രാഫ് കാണിക്കുന്നു ഉദാഹരണത്തിന് P1 മുതൽ S1 വരെയുള്ള എഡ്ജ് സൂചിപ്പിക്കുന്നത് പി 1 നു ഉണ്ടാകുന്ന എന്തു സുരക്ഷാവീഴ്ചയും എസ് 1 നെയും ബാധിക്കും എന്നാണ് നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് വെബ് സെർവറിലെ എല്ലാ ഘടകങ്ങളും ഒരേ ഒരു അഡ്രസ് സ്പേസിൽ ആയതുകൊണ്ട് P1 ന് ഉണ്ടാകുന്ന വിട്ടുവീഴ്ചകൾ S2 നും ബാധിക്കും P1 സെർച്ച് എഞ്ചിനോടും S2 ന്യൂസ് പേപ്പർനോടും ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാലും ഇത് സംഭവിക്കാം അതുപോലെ T1T2T3 അതുപോലെ T4 നേയും ഇത് ബാധിക്കും ഈ സമയത്തു വെബ് സെർവർ മുഴുവൻ ഒരു സുരക്ഷാവീഴ്ച ഉണ്ടെന്നു പറയാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തന്നിരിക്കുന്ന ഡിപെൻഡൻസി ഗ്രാഫിൽ P1 S1 നോടും S2 നോടുംബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് P1 ന് ഉണ്ടാകുന്ന SECURITY പ്രശ്നങ്ങൾ S1 നേയുംS2 നേയും ബാധിക്കും അതുവഴി മുഴുവൻ ഡേറ്റാബേസിനേയും ഈ പ്രശ്നങ്ങൾ ബാധിക്കും അടുത്ത സ്റ്റേജിൽ അതു T1 T2 T3 T4 നേയും പിന്നീട് യൂസർ 1 നേയും യൂസർ 2 നേയും ബാധിക്കും ഇതിൽ നിന്നും വെബ് സെർവറിലെ ഒരു processലെ ഒരൊറ്റ vulnerablity എല്ലാ usersനേയും web server ലെ എല്ലാ സേവനങ്ങളെയും ബാധിക്കും എന്ന നമുക്ക് മനസിലാക്കാൻ കഴിയും 2004 ന് മുമ്പ് അപ്പാച്ചെ വെബ്സെർവറിലെ ഈ ഡിസൈൻ ആർക്കിടെക്ചർ കാരണം ഏഴ് വ്യത്യസ്ത ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അൺ അറ്റെൻഡഡ് ഡാറ്റ ഡിസ്ക്ലോഷർ ബഫർ ഓവർ ഫ്ലോ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ DOS അറ്റാക്ക് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് അത്തരം ആക്രമണങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന OKWS വെബ് സെർവർ പ്രിൻസിപ്പൽസ് ഓഫ് ലീസ്റ്റ് പ്രിവിലേജസ് എന്ന തത്വം അടിസ്ഥാനമാക്കി ഉള്ളതാണ് ഈ തത്വം അനുസരിച് സുരക്ഷാ വീഴ്ച ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു സിസ്റ്റത്തിൽ അറ്റാക്കർനു ഉപയോഗപ്രദമായ വളരെ കുറച്ചു വിവരങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ പ്രിൻസിപ്പൽസ് ഓഫ് ലീസ്റ്റ് പ്രിവിലേജസ് എന്ന തത്വം പാലിക്കുന്ന എന്ന ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം ഒരു സിസ്റ്റത്തിനെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക ഈ മൊഡ്യൂളുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ privilages നൽകുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് സിസ്റ്റത്തിൻറെ ഒരു moduleന് USB ആക്സസ് ചെയ്യണമെന്ന്കരുതുക ആ ഭാഗം ഡിസൈൻ ചെയ്യുമ്പോൾ യുഎസ്ബി റീഡ് യുഎസ്ബി റൈറ്റ് USB Read USB write മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ Principles of Least Privileges ഓരോ മൊഡ്യൂളിലും പ്രയോഗിക്കാൻ കഴിയും മറ്റൊരു ഉദാഹരണം സിസ്റ്റത്തിൽ നിലവിലുള്ള ഒരു ഫയലിൽ നിന്ന് മാത്രം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മൊഡ്യൂൾ ഉണ്ട് എന്ന് കരുതുക അതിനാൽ ആ പ്രത്യേക മൊഡ്യൂളിൽ ഒരു ദുർബലത ഉണ്ടെങ്കിലും ആക്രമണകാരിക്ക് ആ പ്രത്യേക മൊഡ്യൂളിൽ ആ ഒരു ഭാഗം മാത്രമേ ആക്സസ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും കഴിയൂ എന്ന രീതിയിൽ സിസ്റ്റം നിർവ്വചിക്കേണ്ടതുണ്ട് ഇവിടെ ആ ഒരു ഫയൽ മാത്രമെ compromise ആവുന്നുള്ളു ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ ഒരു പ്രത്യേക മൊഡ്യൂളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ ഇത് സഹായിക്കും ഇത് നേടിയെടുക്കുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഓരോ ഭാഗങ്ങളുടെയും ഇൻറർഫേസ് വളരെ നേർത്തതാക്കുക എന്നതാണ് വിവിധ മൊഡ്യൂളുകൾ തമ്മിലുള്ള ഇന്റർഫേസ് കഴിയുന്നത്ര ഇടുങ്ങിയതായിരിക്കണം എന്ന രീതിയിൽ വേണം മൊഡ്യൂളുകൾ നിർവചിക്കേണ്ടത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്നിങ്ങനെ രണ്ട് മൊഡ്യൂളുകൾ ഉണ്ടെന്ന് കരുതുക മൊഡ്യൂൾ 2 ൽ നിർവചിച്ചിരിക്കുന്ന രണ്ട് ഫംഗ്ഷനുകളെ മൊഡ്യൂൾ 1 വിളിക്കുന്നുവെന്ന് കരുതുക മൊഡ്യൂൾ 1ന് മൊഡ്യൂൾ 2 ലേ ആ 2 ഫംഗ്ഷനുകൾ മാത്രമേ ആക്സസ്സുചെയ്യാനാകൂ എന്ന രീതിയിൽ സുരക്ഷാ സംവിധാനം രൂപകൽപ്പന ചെയ്യണം ഒരു അപ്ലിക്കേഷന്റെ സുരക്ഷ അപ്ലിക്കേഷന് പുറത്തുള്ള മറ്റൊരു സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലുള്ളവ ഉറപ്പാക്കണമെന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ സുരക്ഷാ മൊഡ്യൂളിലെ ഏതെങ്കിലും ഒരു തകരാർ മുഴുവൻ ആപ്ലിക്കേഷനെയും compromise ചെയ്യും ആപ്ലിക്കേഷന്റെ സുരക്ഷയ്ക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഉത്തരവാദിയാണെങ്കിൽ ആപ്ലിക്കേഷനിലേക്കുള്ള ആക്സസ് നേടുന്നതിന് ആക്രമണകാരി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് ആക്രമണകാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉപയോക്താവുമായി കൂടുതൽ അടുക്കുന്ന ഇന്റർഫേസിൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് നെറ്റ്വർക്ക് ഇന്റർഫേസുകൾ അതിനാൽ താരതമ്യേന ഇത്തരത്തിലുള്ള ഇന്റർഫേസുകൾ പരിരക്ഷിക്കുന്നത് കൂടുതൽ നിർണ്ണായകമാണ് ഇനി നമുക്ക് പ്രിൻസിപ്പൽസ് ഓഫ് ലീസ്റ്റ് പ്രിവിലേജസ് എങ്ങനെയാണ് OKWS വെബ് സെർവറിൽ പ്രാവർത്തികം ആയിരിക്കുന്നത് എന്ന് നോക്കാം കൂടുതൽ വിവരങ്ങൾക്കായി OKWS പേപ്പർ ലിങ്ക് നോക്കുക OKWS ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചില നിയമങ്ങൾ അനുസരിച്ചാണ് അതിൽ ആദ്യത്തെ നിയമം ഓരോ ഇൻഡിപെൻഡൻറ് സർവീസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ് മോഡ്യൂൾ ഇൻഡിപെൻഡൻറ് പ്രോസസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത് എന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ട സേർച്ച് എഞ്ചിൻറ്യും ഡെയിലി ന്യൂസ് പേപ്പർൻറെയും ഉദാഹരണങ്ങൾ എടുക്കുക OKWSൽ അത് രണ്ടും ഓരോ പ്രോസസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവ രണ്ടും കുറച്ചു മാത്രമേ എക്സ്പോസ് ആവുന്നുള്ളൂ OKWSൻറെ രണ്ടാമത്തെ നിയമമനുസരിച്ച് ഓരോ സർവീസും വേറെ വേറെ ch റൂട്ട് ജയിലിൽ അല്ലെങ്കിൽ ചേഞ്ച് റൂട്ട് ജയിലിൽ ആയിരിക്കും റൺ ചെയ്യുക ഈ രീതി ഉപയോഗിക്കുമ്പോൾ ഓരോ സർവീസും അതിന് അത്യാവശ്യമായ ഫയൽ മാത്രമായിരിക്കും ആക്സസ് ചെയ്യുക റൂട്ട് ജയിൽ എന്താണെന്ന് വിശദമായി നമുക്ക് പിന്നീട് കാണാം അതിനാൽ ഒരു പ്രത്യേക processന് അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമില്ലാത്ത മറ്റേതെങ്കിലും ഫയൽ ആക്സസ് ചെയ്യാൻ കഴിയില്ല OKWS web serverൽ ഓരോ process ഉം റൺ ചെയ്യുന്നത് വ്യത്യസ്തമായ അൺ പ്രിവിലേജ് യൂസർ ആയിട്ടായിരിക്കും ഇത്തരത്തിൽ സേർച്ച് എഞ്ചിനും ഡെയിലി ന്യൂസ് പേപ്പർ ഉം വ്യത്യസ്ത യൂസർ ആയിട്ട് റൺ ചെയ്യും ഇത് ഓരോ പ്രോസസ് ഐസൊലേറ്റഡ് ആവുന്നതിനും ഒരു പ്രോസസ് മറ്റൊന്നിലേക്ക് കടന്നു കയറാതെ ഇരിക്കുന്നതിനും അതിൻറെ മാത്രമായ കണ്ടെന്റ് റീഡ് ചെയ്യാതിരിക്കാനും ഉപകരിക്കും നാലാമത്തെയും അവസാനത്തേതുമായ തത്വം OKWS web server വളരെ ചുരുക്കം ചില പ്രെവിലേജസ് മാത്രമാണ് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ നൽകുന്നത് എന്നതാണ് ഇത് അനാവശ്യമായ ഡേറ്റാബേസ് ആക്സസ് തടയും ഇതിനെ വിശദമാക്കുന്നതിനു മുമ്പ് യൂണിക്സ് സിസ്റ്റം ന്റെ രണ്ടു പ്രധാനമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം OKWS security നൽകുന്നതിന് Unix operating system നൽകുന്ന security സിസ്റ്റത്തെ ആശ്രയിക്കുന്നു പ്രധാനമായ 3 ടൂൾസ് ആണ് security ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യത്തേത് സിഎച്ച് റൂട്ട് ആണ് നിങ്ങൾ അതിനെ കുറിച്ച് ഗൂഗിൾ ചെയ്തു അല്ലെങ്കിൽ change rootന്റെയും setuidന്റെയും manual പേജുകൾ വായിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം change root കമാൻഡ് ഒരു പ്രോസസ് ഏതൊക്കെ ഫയൽ സിസ്റ്റം ആണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് നിർവചിക്കുന്നു പ്രധാനമായും OKWS വെബ് സെർവർ ഉപയോഗിക്കുന്ന വളരെ ഉപയോഗപ്രദമായ മൂന്ന് ഉപകരണങ്ങൾ ഉണ്ട് ഒന്ന് change root രണ്ടാമത്തേത് setuidയും മൂന്നാമത്തേത് മുമ്പത്തെ പ്രഭാഷണത്തിൽ കണ്ടതുപോലെ ഫയൽ ഡിസ്ക്രിപ്റ്ററുകൾ പാസ് ചെയ്യുന്നതിൻറെ ഉപയോഗവുമാണ് ചേഞ്ച് റൂട്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ പ്രത്യേക command നായുള്ള MAN pages നോക്കാൻ കഴിയും ഒരു പ്രോസസ്സിനു വേണ്ടി ഫയൽ ഡിസ്ക്രിപ്റ്റർ നിർവചിക്കും ചേഞ്ച് റൂട്ട് ഉപയോഗിക്കുന്നതിലൂടെ സിസ്റ്റത്തിലെ ഓരോ പ്രക്രിയയ്ക്കും വ്യത്യസ്ത ഫയൽ സിസ്റ്റം നിർവചിക്കാൻ കഴിയും അതിനാൽ ഇത് സാധ്യമാകുന്നത് ഓരോ പ്രക്രിയയും വ്യത്യസ്ത ഫയൽ സിസ്റ്റം കാണും എന്നതാണ് ഒരു അറ്റാക്കർ സിസ്റ്റത്തിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്താൽഒരു പ്രത്യേക പ്രോസസിന്റെ ഫയൽസിസ്റ്റം മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കൂ മറ്റു പ്രോസസിന്റെ ഫയൽസ് പൂർണമായും യും ഇൻവിസിബിൾ ആയിരിക്കും മറ്റൊരുതരത്തിൽ പറഞ്ഞാൽ ഹാക്കറിന് വളരെ പരിമിതമായ ആക്സസ് മാത്രമാണ് ആണ് ലഭിക്കുന്നത് അടുത്ത ടൂൾ ആണ് setuid ഈ കമാൻഡ് ഉപയോഗിച്ച് ഒരു പ്രോസസ്സിന് സ്പെസിഫിക് യൂസർ ഐഡന്റിഫയർ അല്ലെങ്കിൽ യൂസർ ഐഡി ഉപയോഗിച്ച് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനും റൺ ചെയ്യാനും സാധിക്കും ഓരോ പ്രോസസ്സും ഓരോ unprivileged users ആയിട്ടാണ് OKWS webserverൽ ഉള്ളത് ഏതെങ്കിലും ഒരു പ്രോസസ്സിന് സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ അതിന് മറ്റൊരു ഒരു പ്രോസസ്സിന തിരുത്താനോ ബന്ധപ്പെടാനോ കണ്ടൻസ് എടുക്കാനോ സാധിക്കില്ല setuidൻറെ മറ്റൊരു ഉപയോഗം അത് userൻറെ പ്രിവിലേജസ് പരിമിതപ്പെടുത്തുന്നു എന്നതാണ് ഉദാഹരണത്തിന് പ്രോസസ് പ്രിവിലേജ് മോഡൽ റൺ ചെയ്യുമ്പോൾ അത് കോംപ്രമൈസ് ആയാൽ അറ്റാക്കറിന് റിസോഴ്സസ് manipulate ചെയ്യാൻ സാധിക്കും setuid അതിനെ തടയുന്നു മൂന്നാമതായി ആയി OKWS ഉപയോഗിക്കുന്നത് ഫയൽ ഡിസ്ക്രിപ്റ്റർ പാസ് ചെയ്യുന്ന എന്ന രീതി ആണ് ഒരു പ്രോസസ് ഫയൽ ഡിസ്ക്രിപ്റ്റർ മറ്റൊരു പ്രോസസ്സിന് കൊടുത്താൽ രണ്ടാമത്തെ ഫയൽനു മറ്റേതിന്റെ അക്സസ്സ് കിട്ടും ഇതിനുവേണ്ടി പ്രത്യേകമായി ആയി ഒന്നും ചെയ്യേണ്ടതില്ല ഇത്തരത്തിൽ പാസ് ചെയ്യുമ്പോൾ ചൈൽഡ് പ്രോസസ്സിന് parent പ്രോസസ്സ്ന്റെ പ്രിവിലേജസ് പോലും ലഭിക്കുന്നതാണ് വീണ്ടും ഡിപെൻഡൻസി ഗ്രാഫ് നോക്കുക ഇവിടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കോംപ്രമൈസ് ആവുന്നുള്ളൂ ഓരോ പ്രോസസ് പ്രത്യേക സെർവീസിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പാച്ചെ സെർവറിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇത് ഇവിടെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനോട് ബന്ധപ്പെട്ട സർവീസിനെ മാത്രമാണ് ബാധിക്കുക അതുകൊണ്ട് ഇവിടെ T1 ഉം T3 ഉം മാത്രമാണ് കോംപ്രമൈസ് ആവുന്നത് ഓർമ്മിക്കുക S1 വെബ് ബ്രൌസർ പേജും S2 ഡെയിലി ന്യൂസ് പേപ്പർ പേജും ആണ് ഇത് ഒരു പ്രോസസ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട സർവീസിനെ മാത്രമാണ് ബാധിക്കുക അതായത് ഇവിടെ T1 നെയും T3 യെയും മാത്രമാണ് ബാധിക്കുക S1 വെബ് ബ്രൌസർ പേജും S2 ഡെയിലി ന്യൂസ് പേപ്പർ പേജും ആണ് സെർച്ച് എൻജിൻ സർവീസിന് എന്തെങ്കിലും security vunerability സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് നെയും യൂസേഴ്സ് നെയും മാത്രമായിരിക്കും ബാധിക്കുക അത് ഒരിക്കലും ഡെയിലി ന്യൂസ് പേപ്പർ സർവീസിനെ ബാധിക്കില്ല അതായത് പ്രോസസ് P2 S2 T2 T4 എന്നിവ സുരക്ഷിതമായിരിക്കും അങ്ങനെ OKWS സെർവർ ഒരു സർവീസിനെ മറ്റൊരു സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഇത് സെക്യൂരിറ്റി മുഴുവനായും ഉറപ്പു നൽകുന്നു എന്നു പറയാനാവില്ല എങ്കിലും ഒരു പരിധിവരെ അത് secuirty ഉറപ്പു നൽകുന്നുണ്ട് ഒരു സിസ്റ്റത്തിലെ എല്ലാ ഘടകങ്ങളും തമ്മിൽ നിർബന്ധമായും ഒരു ഐസോലേഷൻ വേണമെങ്കിൽ അത് ഇങ്ങനെ ആകാം അതായത് ഒരു യൂസറിന് ബാധിച്ച vulnerablities അതുമായി ബന്ധപ്പെട്ട സർവീസിനെ മാത്രമാണ് ബാധിക്കുന്നുള്ളൂ ഉദാഹരണത്തിന് യൂസർ 1 കോംപ്രമൈസ് ആയാൽ P1 T1 T2 എല്ലാം കോംപ്രമൈസ് ആകും എന്നാൽ അത് യൂസർ 2 നെ ബാധിക്കില്ല ഈ മാതൃക നല്ല സുരക്ഷ ഉറപ്പാക്കും പക്ഷേ ഇത് നടപ്പിലാക്കാൻ എളുപ്പമല്ല കാരണം ഓരോ യൂസർ നും ഓരോ പ്രോസസ് വേണ്ടിവരും ഇത്തരത്തിലുള്ള ഡിസൈൻ അതിൻറെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ട് കാരണം ഓരോ യൂസർ നും ഓരോ പ്രോസസ് വേണ്ടിവരും കൂടുതൽ ആളുകൾ ഒരേസമയം വെബ് ബ്രൌസർ നോട് ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ഇത് processകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവിന് കാരണമാകും അത് വെബ് സെർവറിന്റെ പ്രകടനത്തെ ബാധിക്കും അതേ സമയം തന്നെ സുരക്ഷയും performance തമ്മിൽ ഒരു compromise അല്ലെങ്കിൽ ഒരു tradeoff സൃഷ്ടിക്കാൻ OKWS വെബ് സെർവർ ഡിസൈൻ തത്വത്തിന് കഴിയും OKWS ഡിസൈൻ സൂക്ഷ്മമായി നിരീക്ഷിക്കാം അതിലെ ഒരു പ്രധാന ഘടകമാണ് OKLD ഇത് ഒരു റൂട്ട് യൂസർ ആയി പ്രവർത്തിക്കുന്നു അത് run എന്ന് വിളിക്കുന്ന change root directory ൽ ആണ് റൺ ചെയ്യുന്നത് ഈ OKLD ആണ് വെബ് സർവർൻറെ മുഴുവൻ പ്രവർത്തനത്തേയും ഏകോപിപ്പിക്കുന്നതിനും ഏതൊക്കെ പ്രോസസ് പ്രവർത്തിക്കുന്നു ഏതെങ്കിലും പ്രോസസ് ക്രാഷ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതും ഏതെങ്കിലും പ്രോസസ് ക്രാഷ് ആയാൽ അതിനെ റീസ്റ്റാർട്ട്ചെയ്യും OKLD പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം ഇത് രണ്ട് പ്രോസസ്സുകൾ കൂടി സൃഷ്ടിക്കും OKD process OKLOGD process OKLOGD process അതേപേരിലുള്ള യൂസർ ന്റെ ഒപ്പം ലോഗ് എന്ന ചേഞ്ച് റൂട്ട് ഡയറക്ടറിയിൽ ആണ് പ്രവർത്തിക്കുന്നത് വെബ് സെർവർ ന്റെ എല്ലാ ലോഗിംഗ് ആക്ടിവിറ്റി യും OKLOGD ആണ് നിയന്ത്രിക്കുന്നത് ഒരു പ്രോസസ് ഫയൽസിസ്റ്റം വേണമെങ്കിലോ ലോഗ് ചെയ്യണമെങ്കിലോ ഒക്കെ OKLOGD RPCവഴിയാണ് ആശയവിനിമയം നടത്തേണ്ടത് OKD പ്രോസസ് OKD userനൊപ്പം run ഡയറക്ടറിയിൽ പ്രവർത്തിക്കുന്നു ഇത് എപ്പോഴും പോർട്ട് നമ്പർ 80 ഉപയോഗിച്ചു പുറത്തുനിന്നുള്ള ഉള്ള പുതിയ കണക്ഷൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ അതിൻറെ സർവീസ് ചെയ്തു കൊടുക്കുകയും എന്തെങ്കിലും തെറ്റായി ചോദിച്ചാൽ HTTP 404 error ആയിരിക്കും മറുപടി നൽകുക ഏതെങ്കിലും അപേക്ഷ break ആയങ്കിൽ HTTP 500 ആയിരിക്കും ആ remote client നെ അറിയിക്കുക OKWS നൽകുന്ന മറ്റൊരു സേവനമാണ് PUBD അതിൻറെ യൂസർ www ആണ് ഇത് ht docs എന്ന change root ഡയറക്ടറിയിൽ പ്രവർത്തിക്കുന്നു PUDB റീഡ് ഒൺലി പെർമിഷൻ മാത്രമാണ് മാത്രമാണ് ലോക്കൽ കോൺഫിഗറേഷൻ ഫയലിലും എച്ച്ടിഎംഎൽ ഫയലിലും കൊടുക്കുന്നത് OKLOGD പ്രോസസ് മാത്രമാണ് റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻ ഉള്ള ഒരു പ്രോസസ്സ്മറ്റെല്ലാ പ്രോസസ്സുകൾക്കും ഫയലുകളിലേക്ക് റീഡ് ആക്സസ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം സജ്ജീകരിച്ചുകഴിഞ്ഞാൽ OKLD പ്രോസസിനു റൺ ചെയ്യാവുന്ന മറ്റ് സേവനങ്ങളാണ് PHP service SSL service മുതലായവ ഇതിന് എല്ലാത്തിനും വേറെ വേറെ യൂസർ ഉം ചേഞ്ച് റൂട്ട് റൺ ഉം ആണ് ഉള്ളത് റൺ ഫയൽ സിസ്റ്റം റീഡ് ഒൺലി ആയതുകൊണ്ട് വിവിധങ്ങളായ എല്ലാ പ്രോസസും ചേഞ്ച് റൂട്ടിൽ നിന്നും റൺ ചെയ്യാവുന്നതാണ് OKD യും വിവിധ സേവനങ്ങളും തമ്മിൽ കണക്ഷനുകളുണ്ട് അതുകൊണ്ട് ഓരോ കണക്ഷൻ റിക്വസ്റ്റ് ഉം വ്യാഖ്യാനിക്കുന്നതും അനുബന്ധ സേവനത്തിലേക്ക് നൽകുന്നതും OKD ആണ് OKD process ഉം വിവിധ സേവനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് RPC സംവിധാനം ഉണ്ട് അതിനാൽ ഈ RPCകൾ യഥാർത്ഥത്തിൽ OLDയും അനുബന്ധ സേവനങ്ങളും തമ്മിൽ അഭ്യർത്ഥന കൈമാറാൻ ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ OKWS വെബ് സെർവറിൽ നിരവധിയായ processes ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും OKLD ആണ് എല്ലാ സർവീസുകളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് OKLD ആണ് ഏതെങ്കിലും ഒരു സർവീസ് പ്രവർത്തിക്കാതെ ഇരിക്കുകയോ പ്രവർത്തനരഹിതം ആവുകയോ ചെയ്താൽ OKLD അതിനെ റീ സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെയാണു OKWS കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും വിവിധ ഭാഗങ്ങളെ വേർതിരിച്ച് നിർത്തുകയും ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഇതിലും കൂടുതലായി എങ്ങനെയാണ് ഓരോ സർവീസിനെ യും ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതിനെപ്പറ്റി ആണ് ഇപ്പോൾ ആർ പി സി ആണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് resourceകളുടെ കാര്യത്തിൽ ഈ ആർപിസികൾ വളരെ demanding ആണ് ഓരോന്നിനും ഒരു സിസ്റ്റം കോൾ ഉൾപ്പെടുന്നു ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇടപെടൽ ആവശ്യമാണ് അതുകൊണ്ട് ഒരു പ്രോസസ്സ് ഉപയോഗിച്ചു എങ്ങനെയാണ് സൂക്ഷ്മമായ ഐസൊലേഷൻ ചെയ്യുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം